സൂചക പദങ്ങൾ പ്രഷർ ഫ്ളൂയിഡ് വാൽവ് പൈലറ്റ് പ്രഷർ ലോഡ് ചെക്ക് വാൽവ് ഫ്ളോ കൺട്രോൾ വാൽവ് കൺട്രോൾ അതിനാൽ മൂന്നുതരം പമ്പുകൾ കണ്ടതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇത് നമ്മൾ കണ്ടു ദ്രാവകത്തിൽ എങ്ങനെയാണ് മർദ്ദം കൊടുക്കുന്നതെന്നും ഒപ്പം എങ്ങനെയാണ് മർദ്ദം ഉണ്ടാക്കുന്നതെന്നും നമ്മൾ മോട്ടർ കണ്ടു അവിടെ മർദ്ദം കൊടുത്ത ദ്രാവകം ചക്ര ഗതിയിലുള്ള ചലനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ ലീനിയർ ചലനം ഉണ്ടാക്കുന്ന വേറെ ഒരു തരം ആക്ചുവെറ്റർ കാണും നമ്മൾക്ക് അടിസ്ഥാനപരമായി ഇങ്ങനത്തെ രണ്ടു കാര്യങ്ങൾ വേണം ചില സമയങ്ങളിൽ നമ്മൾക്ക് മാറ്റാം അതായത് ചക്ര ഗതിയിലുള്ള ചലനത്തിനെ ലീനിയർ ചലനമായി പരിവർത്തനം ചെയ്യാം ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലീഡ് സ്ക്രൂ കുറച്ച് അറിയാമല്ലോ പക്ഷേ നമ്മൾക്ക് സിലിണ്ടർ ഉപയോഗിച്ച് നേരിട്ട് ലീനിയർ ചലനമുണ്ടാക്കാൻ സാധിക്കും ഇതിനു രണ്ടിനും ഇടയിലാണ് പമ്പ് ഒപ്പം ആക്ചുവെറ്റർ ഇടയിലാണ് അത് മോട്ടോർ ആകാം അല്ലെങ്കിൽ സിലിണ്ടർ ആകാം ദ്രാവകം അതിൽ കൂടെ പോകണം അതിൽ കൂടി നിരവധി രീതിയിൽ പോകണം മർദ്ദം നിയന്ത്രിക്കണം അതിനാൽ നിരവധി ഭാഗങ്ങൾ ഇതിൽ ഇടണം അതിൻറെ സഞ്ചാര പാതയിൽ അതായത് പമ്പിൽ നിന്ന് ആക്ചുവെറ്റർ വരെ അതിനാൽ നമ്മൾക്ക് വാൽവ് വേണം അതിൽ പ്രധാന തരം വാൽവ് ഡയറക്ഷണൽ വാൽവ് ആണ് ഫ്ളോ ദിശ നിയന്ത്രിക്കുന്നതാണ് അതിൻറെ ജോലി അതിനാൽ ഏത് ദിശയിൽ അത് സഞ്ചരിക്കും അത് ഫ്ളോ ദിശയിൽ സഞ്ചരിക്കും കാരണം ഫ്ളോ ദിശ ചലന ദിശയുമായി ബന്ധമുണ്ട് ഇനി നമ്മൾക്ക് പലതരം ചലനങ്ങൾ ഉണ്ടാക്കണം ചില സമയങ്ങളിൽ നമ്മൾക്ക് മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ആവശ്യമായിവരും അതിനാൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് തുടർച്ചയായി തനിയെ ഫ്ളോ ദിശ മാറ്റേണ്ടിവരും അതിനാൽ ഇത് ചെയ്യാൻ വേണ്ടി വാൽവ് ആവശ്യമുണ്ട് അതിനാൽ നമ്മൾക്ക് വിവിധതരം ഡയറക്ഷണൽ വാൽവ് ഉണ്ട് ഇത് മൂന്നും ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തേത് വൺവേ ചെക്ക് വാൽവ് രണ്ടാമത്തേത് ടുവേ ചെക്ക് വാൽവ് മൂന്നാമത്തേത് ഫോർവേ ചെക്ക് വാൽവ് ആദ്യം ചെക്ക് വാൽവ് അതിനാൽ ചെക്ക് വാൽവ് എന്താണ് അത് ചെയ്യുന്നത് അത് ഒരു ദിശയിൽ ഫ്ളോ അനുവദിക്കും ഇതിൻറെ പ്രവർത്തനം വളരെ ലളിതമാണ് ഇത് ഒരു തരത്തിലുള്ള ഘടനയാണ് നിരവധി തരം ചെക്ക് വാൽവ് ഉണ്ട് ഹൈഡ്രോളിക് സിസ്റ്റം മെക്കാനിക്കൽ രൂപകല്പന വളരെ സങ്കീർണമാണ് വളരെ കൃത്യം ആയിട്ടുള്ള നിർമ്മാണപ്രവർത്തനങ്ങൾ വേണം അതുകൊണ്ട് നിരവധി തരം ഘടനകൾ സാധ്യമാണ് പക്ഷേ നമ്മൾ പ്രധാനമായും കാണാൻ പോകുന്നത് ചിത്ര രൂപത്തിൽ ആണ് ഇതാണ് ഒരു ചിത്രം ബോൾ തരത്തിലുള്ള ചെക്ക് വാൽവ് ആണിത് നമ്മൾക്ക് പോപ്പെറ്റ് തരം ചെക്ക് വാൽവും ഉപയോഗിക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഒരു സ്പ്രിങ് ആണ് ഇത് ഒരു സ്പ്രിങ് ആണ് ഇത് ഒരു ബോൾ ആണ് ഇത് ശരിക്കും ഒരു ബോൾ ആണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഫ്ളോ ഈ ദിശയിൽ ആണെങ്കിൽ ബോൾ സ്പ്രിംഗ് ദിശയിൽ തള്ളും അപ്പോൾ ദ്രാവകം ഇങ്ങനെ ഒഴുകും ഇതേപോലെ സ്പ്രിങ്ങിൽ കൂടെ ഫ്ളോ ഈ ദിശയിൽ ആയിരിക്കുമ്പോൾ ബോൾ ഈ ദിശയിൽ ആണ് തള്ളുന്നത് എന്നിട്ട് അത് ഇവിടെ വന്നു പോർട്ട് അടയ്ക്കും അതിനാൽ ദ്രാവകത്തിന് ഇത് വഴി പോകാൻ സാധിക്കില്ല പക്ഷേ ഇത് വഴി സ്വതന്ത്രമായി സഞ്ചരിക്കാം അതിനാൽ ഈ ചിഹ്നം ഫ്ളോ ദിശ ഇതാണെന്ന് കാണിക്കുന്നു ഒപ്പം ഇതുവഴി പോകാൻ സാധിക്കില്ല വൺവേ ചെക്ക് വാൽവ് കണ്ടതിനുശേഷം ചില സമയങ്ങളിൽ നമ്മൾക്ക് ആവശ്യമായിവരുന്ന വാൽവ് നിങ്ങൾക്കറിയാം നമ്മൾ പൈലറ്റ് പ്രവർത്തനത്തിൽ ഉള്ള വാൽവ് വിശദീകരിക്കും കാരണം ചില സമയങ്ങളിൽ നമ്മൾക്ക് അത് ആവശ്യമായിവരും സാധാരണ അവസ്ഥയിൽ ഫ്ളോ ഈ ദിശയിൽ ആയിരിക്കും പക്ഷേ ചില പ്രത്യേകതരം സാഹചര്യങ്ങളിൽ ഫ്ളോ എതിർദിശയിൽ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉറപ്പിക്കും അപ്പോൾ ചില സമയങ്ങളിൽ കാരണം ഓർക്കുക ഇതെല്ലാം എല്ലാ ഹൈഡ്രോളിക് ഉപകരണങ്ങളും ഓപ്പറേറ്റർ ഇൽ നിന്ന് ദൂരെയായിരിക്കും സ്ഥിതിചെയ്യുന്നത് ഓപ്പറേറ്റർ ജോലിചെയ്യുന്ന സ്ഥലത്തുനിന്നും അത് ചിലപ്പോൾ മെഷീൻ അടുത്തും ആയിരിക്കും അതിനാൽ ഇതെല്ലാം വിദൂരതയിൽ ഇരിക്കുന്ന ഓപ്പറേറ്റർ ആവശ്യമാണ് നിങ്ങൾക്ക് വാൽവ് പ്രവർത്തന രീതിയിൽ മാറ്റം കൊണ്ടുവരാം അതുകൊണ്ട് പൈലറ്റ് പ്രവർത്തനത്തിൽ ഉള്ള വാൽവ് ഉപയോഗിക്കും അതിൽ പുറത്തുനിന്ന് മർദ്ദം കൊടുക്കും കൂടുതലും വിദൂരതയിലുള്ള സ്രോതസ്സ് കൊണ്ട് അതിൻറെ പ്രവർത്തന രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾക്ക് ഒരു ഉദാഹരണം കാണാം ഇവിടെ ഒരു വാൽവ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പോർട്ട് ആണ് ഫ്ളോ നിയന്ത്രിക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാം ഇതാണ് സ്പ്രിങ് ഒപ്പം ഇതാണ് സിലിണ്ടർ ഇതാണ് രണ്ടിനെയും വേർതിരിക്കുന്നത് ഇതാണ് എൻറെ പൈലറ്റ് പോർട്ട് ഒപ്പം ഇതാണ് ട്രയിൻ പോർട്ട് നിങ്ങൾക്കറിയാം ഇത്തരം വാൽവിൽ ഓർക്കുക പമ്പ് ലോഡിൽ കൂടെ ദ്രാവകം കൊടുക്കാൻ പോകുന്നു എന്ന് കരുതുക ഒപ്പം ലോഡ് സഞ്ചരിക്കുകയാണ് ഇനി കരുതുക പെട്ടെന്ന് ലോഡ് മെക്കാനിക്കൽ ആയി കുടുങ്ങി പോയെന്ന് അപ്പോൾ എന്തു സംഭവിക്കും പമ്പ് ദ്രാവകം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഒപ്പം ലോഡ് അനങ്ങുന്നില്ല അതിനാൽ ദ്രാവകം പെട്ടെന്ന് മർദ്ദത്തിൽ ആകും കാരണം അത് ഇൻകംപ്രെസ്സിബിൽ ആണ് വളരെ കൂടിയ മർദ്ദം അത് ഉണ്ടാകും ഒപ്പം ഈ മർദ്ദം ശരിക്കും ഹാനികരമാണ് അതിന് തുറക്കാം അതിനു സീൽ തകരാറിലാക്കാം അതേപോലെ ഫിറ്റിംഗ് അതിന് സ്ഫോടനം ഉണ്ടാക്കാം അതിനാൽ മർദ്ദം പെട്ടെന്ന് കൂടിയാൽ അപകടകരമാണ് കാരണം അത് ഇൻകംപ്രെസ്സിബിൽ ആണ് അതിനാൽ കുടുങ്ങി പോയാൽ മർദ്ദം പെട്ടെന്ന് കൂടാം അതിനാൽ ഇത്തരം ഉണ്ടാകുന്ന മർദ്ദം കളയാൻ നമ്മൾക്ക് വേറെ രീതികളുണ്ട് അതിനാൽ ഇവിടെ ഒരു രീതിയുണ്ട് ട്രയിൻ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രാഥമികമായി ഇത് ഒരു ചെറിയ ഭാഗമാണ് ഒപ്പം ഇത് പോർട്ട് ആണ് അപ്പോൾ പ്രാഥമികമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സ്പ്രിങ് അമർത്തുമ്പോൾ ഇതാണ് പോർട്ട് ഇത് സ്ഥൂലമായ ഭാഗങ്ങളാണ് ഇത് പൊള്ളയായ ഭാഗമാണ് ഇവിടെയാണ് ദ്രാവകം ഉള്ളത് ഇതാണ് സ്ഥൂലമായ ഭാഗങ്ങൾ അതായത് ലോഹങ്ങളുടെതായ ഭാഗങ്ങൾ അതിനാൽ സാധാരണ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇതാണ് വാൽവ് സ്ഥാനം ഇതിനെ സ്റ്റം എന്നാണ് വിളിക്കുന്നത് ഇനി ദ്രാവകം വരുമ്പോൾ ദ്രാവകം ഇവിടെ തള്ളുന്നു ഒപ്പം ഇത് താഴെ പോകും അഥവാ അവിടെ വേണ്ട മർദ്ദം ഉണ്ടെങ്കിൽ അതിനാൽ അവിടെ കുറച്ച് ഫോഴ്സ് ഉണ്ടാകും ഒപ്പം സ്പ്രിങ് ഫോഴ്സ് അതിനെ മറികടക്കും ഒപ്പം ദ്രാവകം ഇതിൽ കൂടെ പോകും ഇതാണ് സാധാരണ ഫ്ളോ ദിശ നേരെമറിച്ച് ഇവിടെ മർദ്ദം കൂടിയാൽ ഫോഴ്സ് ഇവിടെ ഉണ്ടാകും അതിനാൽ സ്പ്രിങ് ഫോഴ്സ് കാരണം ഇനി ഫ്രീ ബോഡി ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് ഇവിടെയാണ് ഒപ്പം പ്രഷർ ഫോഴ്സ് ഇവിടെയാണ് ഇതിൽ തന്നെയാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം ഇവിടത്തെ മർദ്ദം സ്പ്രിങ്ങിനെ മുകളിലോട്ട് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ ഇത് തുറക്കും അപ്പോൾ ദ്രാവകം ട്രയിൻ വഴി പോകും ഇനി കരുതുക നമ്മൾ ഒരു പൈലറ്റ് മർദ്ദം കൊടുത്തെന്ന് അപ്പോൾ എന്ത് സംഭവിക്കും കുറച്ചുകഴിഞ്ഞ് അത് വരുള്ളൂ അതിനാൽ ഇവിടെ നമ്മൾ ദ്രാവകം ഫ്ളോ കൊടുത്താൽ ദ്രാവകം ഇതുവഴി സ്വതന്ത്രമായി സഞ്ചരിക്കും ഇനി എന്ത് സംഭവിക്കും അതിന് മറ്റേ വഴി സഞ്ചരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അതിന് മറ്റേ വഴി സഞ്ചരിക്കാൻ കഴിയില്ല കാരണം ഞാൻ ദിശ അടയാളപ്പെടുത്താൻ നിറം മാറ്റട്ടെ അതിനാൽ ദ്രാവകം ഇവിടുന്ന് തുടങ്ങിയാൽ പോർട്ടിൽ ഇവിടുന്ന് കയറും ഇവിടെവെച്ച് അമർത്തപ്പെടും ഒപ്പം ഇത് അടയും അപ്പോൾ ദ്രാവകത്തിന് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത് ചെക്ക് വാൽവ് ആകുന്നത് നേരെമറിച്ച് ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് എതിർദിശയിൽ ഉള്ള സഞ്ചാരം വേണമെങ്കിൽ ഇവിടെവച്ച് പൈലറ്റ് മർദ്ദം കൊടുക്കാം പൈലറ്റ് മർദ്ദം കൊടുത്താൽ ഈ മുഴുവൻ സാധനവും പൈലറ്റ് മർദ്ദം കാരണം താഴേക്ക് വരും പൈലറ്റ് മർദ്ദനത്തിന് പ്രത്യേക ചിത്രമുണ്ട് അതിനാൽ നമ്മൾക്ക് അത് കാണാം അതിനാൽ നമ്മൾക്ക് പൈലറ്റ് മർദ്ദം ഉണ്ടാകുമ്പോൾ ഇതാണ് പൈലറ്റ് പോർട്ട് നമ്മൾക്ക് മർദ്ദം ഉണ്ട് അതിനാൽ സ്പ്രിങ് അമർത്തപ്പെടും അപ്പോൾ ഇത് അടിയിൽ വരും കൃത്യമായി അണിനിരന്നല്ല ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഇപ്പോൾ ഇത് തുറക്കും അതിനാൽ ദ്രാവകം ഇതുവഴി പോകും അതിന് തുറക്കുകയും ചെയ്യാം അതിന് ട്രയിൻ ആവുകയും ചെയ്യാം അപ്പോൾ ഇതാണ് പൈലറ്റ് പ്രവർത്തനത്തിലുള്ള ചെക്ക് വാൽവ് ചില സമയങ്ങളിൽ നമ്മൾക്ക് ഫ്ളോ ദിശ മാറ്റേണ്ടതായി വരും അതിനാൽ നമ്മൾക്ക് ടുവേ അല്ലെങ്കിൽ ഫോർവേ വാൽവ് ഉണ്ട് അതുകൊണ്ട് നമ്മൾക്ക് കാണണം T എന്നാൽ ടാങ്ക് ആണ് P എന്നാൽ പമ്പ് ആണ്A ഒപ്പം B എന്നാൽ ലോഡ് പോർട്ട് ആണ് ലോഡ് അല്ലെങ്കിൽ സിസ്റ്റം പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാൽവിന് രണ്ട് സ്ഥാനങ്ങൾ ഉണ്ട് അഥവാ ഈ സ്ഥാനത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പമ്പ് പോർട്ട് A ആയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് ടാങ്കിൽ തിരിച്ചുവരുന്നത് ഇതുവഴി അല്ല പക്ഷേ വേറെ ഏതെങ്കിലും വഴിയാണ് അത് കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അത് വരയ്ക്കുകയാണ് അതിന് രണ്ട് സ്ഥാനങ്ങൾ ഉണ്ട് അതിനാൽ നമ്മൾ രണ്ട് ബോക്സ് വരയ്ക്കുന്നു ചില സമയങ്ങളിൽ മൂന്ന് ബോക്സ് ഉണ്ടാവാം അതിൽ കേന്ദ്രസ്ഥാനം ന്യൂട്രൽ ആണ് ഒരുഭാഗത്ത് നമ്മൾക്ക് പമ്പ് ഒപ്പം ടാങ്ക് ഉണ്ട് മറ്റേ ഭാഗത്ത് ലോഡ് പോർട്ട് ഉണ്ട് ഒപ്പം ഇനി ആരോ സൂചിപ്പിക്കുന്നത് ഇതിൽ ഏതു സ്ഥാനത്താണ് പോർട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അതിനാൽ ഈ സ്ഥാനത്ത് പമ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പോർട്ട് B ആയാണ് ഈ സ്ഥാനത്ത് A ആണ് വരേണ്ടത് ഇതുമായി അനുബന്ധമായി നോക്കിയാൽ ഇതാണ് ശരിക്കും വരേണ്ടത് അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് ഈ ചിത്രം ഈ ബോക്സ് ആയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇതാണ് P ഇതാണ് A ടാങ്ക് സീൽ ചെയ്തിരിക്കുകയാണ് ഒപ്പം B സീൽ ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം സീൽ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം നേരെ മറിച്ച് അടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് കാണാം അത് നേർവിപരീതമാണ് അപ്പോൾ അത് വലതു ഭാഗത്താണ് പമ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നത് B ആയാണ് ഒപ്പം A ഒപ്പം ടാങ്ക് സീൽ ചെയ്തിരിക്കുകയാണ് അതിനാൽ അടുത്ത ബോക്സ് ചിത്രം ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എന്താണ് നേടിയത് വാൽവ് സ്പൂൾ നീക്കിയാൽ പോർട്ട് A ഒപ്പം പോർട്ട് B ആയി ബന്ധിപ്പിക്കാം ഇതാണ് നമ്മൾ നേടിയത് ഒപ്പം എങ്ങനെയാണ് സ്പൂൾ നീക്കുന്നത് അതിന് വിവിധതരം രീതികൾ ഉണ്ട് ഉദാഹരണത്തിന് സ്പൂൾ ചില സമയങ്ങളിൽ ഇങ്ങനെ നീക്കാം നമ്മൾ ചിഹ്നം വരയ്ക്കുമ്പോൾ അപ്പോൾ എങ്ങനെ സ്പൂൾ നീക്കം സ്പൂൾ സോളിനോയ്ഡ് ഉപയോഗിച്ചാണ് നീക്കുന്നത് അതിനാൽ നമ്മൾ നീക്കുകയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നു ഇതാണ് സോളിനോയ്ഡ് ചിഹ്നം ചില സമയങ്ങളിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കാറുള്ളത് ഈ വാൽവ് വലുതാണെങ്കിൽ സ്പൂൾ നീക്കാൻ ഫോഴ്സ് വേണ്ടിവരും അതിനാൽ സ്പൂൾ നീക്കുന്നത് ഏതെങ്കിലും അതിനാൽ ഈ ത്രികോണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് നീക്കുന്നത് ഹൈഡ്രോളിക് ഒപ്പം ന്യൂമാറ്റിക് കൊണ്ടാണ് എന്നാണ് ഇതു മുഴുവൻ ആയാൽ ഇത് ഹൈഡ്രോളിക് കൊണ്ട് നീക്കുന്ന സ്പൂൾ ആണ് ചില സമയങ്ങളിൽ ഡയറക്ഷണൽ വാൽവ് വളരെ വലുതായിരിക്കും അതിനാൽ സ്പൂൾ നീക്കാൻ വേറൊരു ഹൈഡ്രോളിക് ഫോഴ്സ് വേണ്ടിവരും അതിനാൽ ഇതാണ് ഹൈഡ്രോളിക് വഴിയിൽ നീക്കുന്ന സ്പൂൾ ത്രികോണ പ്രവർത്തനതലം ത്രികോണം പൊള്ളയാണെങ്കിൽ അത് ഒരു ന്യൂമാറ്റിക് പ്രവർത്തനതലം ആണ് ന്യൂമാറ്റിക് പ്രവർത്തന വാൽവ് ചില സമയങ്ങളിൽ സ്പ്രിംഗ് ഈ ദിശയിൽ വലിക്കണം എന്നിട്ട് തിരിച്ചു പോകും ചില സമയങ്ങളിൽ നമ്മൾക്ക് ക്രമീകരിക്കാവുന്ന ഉണ്ടാവും അതിനാൽ ഇതൊക്കെയാണ് സ്പൂൾ നീക്കാൻ ഉള്ള വിവിധ രീതികൾ ചിലപ്പോൾ കൈ ഉപയോഗിച്ച് മെക്കാനിക്കൽ ആയും ഇത് എടുത്തു മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തള്ളിയാൽ അല്ലെങ്കിൽ ലിവർ വലിച്ചാൽ ഇനി നമ്മൾക്ക് ഫോർവേ വാൽവിൽ വരാം അതിനാൽ ഫോർവേ വാൽവിൽ അത് ഏകദേശം സമാനമാണ് ഓരോ സ്ഥാനത്തും A ഒപ്പം B പമ്പ് ഒപ്പം ടാങ്ക് ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഈ സ്ഥാനത്ത് പമ്പ് B ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് ടാങ്ക് A ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥാനത്ത് ആകുമ്പോൾ പമ്പ് A ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ടാങ്ക് B ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഘടനാപരമായി ഇത് രണ്ടും സമാനമാണ് അതിനാൽ ഒരേ വാൽവ് തന്നെയാണ് ടുവേ അല്ലെങ്കിൽ ഫോർവേ ആകുന്നത് അടിസ്ഥാനപരമായി ക്ഷേത്രഗണിതം അനുസരിച്ച് ഇത് അതേ ചിത്രം തന്നെയാണ് നേരത്തേയുള്ള ചിത്രത്തിൽ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതായിരുന്നു അതിനാൽ A ഇപ്പോൾ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ചുരുങ്ങിയത് മാത്രമേയുള്ളൂ അതിനാൽ ഈ സ്ഥാനത്ത് പമ്പ് B ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ടാങ്ക് A ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ഇടതു ഭാഗത്തോട് നീക്കിയാൽ പമ്പ് A ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ടാങ്ക് B ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഇതാണ് ഫോർവേ വാൽവ് ഞാൻ പറഞ്ഞത് പോലെ പല സാഹചര്യങ്ങളിലും മർദ്ദം നിയന്ത്രിക്കണം അല്ലെങ്കിൽ വാൽവിൽ കൂടെയുള്ള ഫ്ളോ നിയന്ത്രിക്കണം ചിലസമയങ്ങളിൽ വെലോസിറ്റി നിയന്ത്രിക്കണം ചില സമയങ്ങളിൽ വലിയ ലോഡ് ആണ് നിൽക്കുന്നതെങ്കിൽ ചില സമയങ്ങളിൽ അത് പ്രത്യേക വേഗത്തിൽ നീക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ളോ നിയന്ത്രിക്കേണ്ട വരും മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾക്ക് വേറെ തരം വാൽവ് ഉണ്ട് ഇതിനെ പ്രഷർ റിലീഫ് വാൽവ് ഒപ്പം ഫ്ളോ നിയന്ത്രണ വാൽവ് എന്ന് വിളിക്കും അതിൽ കുറച്ച് നമ്മൾക്ക് നോക്കാം ഇതാണ് ഒരു വളരെ ലളിതമായ പ്രഷർ റിലീഫ് വാൽവ് നിങ്ങൾക്ക് കാണാം ഇതാണ് ഇൻലെറ്റ് വളരെ ലളിതമാണ് ഇതാണ് ട്രയിൻ ഈ വാൽവ് പൈപ്പ് ലൈൻ ആയിട്ട് ബന്ധിപ്പിക്കാം പൈപ്പ് ലൈൻ ആയിട്ട് ബന്ധിപ്പിച്ചാൽ ഇതാണ് ട്രയിൻ അതിനാൽ ഇവിടത്തെ മർദ്ദം വളരെയധികം കൂടിയാൽ ഈ പ്രത്യേക പോപ്പെറ്റ് തള്ളും അതിനാൽ ദ്രാവകം ട്രയിൻ കൂടെ പോകും ട്രയിൻ കുറഞ്ഞ മർദ്ദത്തിൽ ആയതിനാൽ ഇവിടത്തെ മർദ്ദം പെട്ടെന്ന് കുറയും അതിനാൽ കൂടിയ മർദ്ദം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ എത്ര മർദ്ദത്തിൽ ആയിരിക്കും പോപ്പെറ്റ് നീങ്ങാൻ തുടങ്ങുന്നത് ഒപ്പം ട്രയിൻ ലൈൻ തുറക്കുന്നത് അത് സ്പ്രിംഗ് ആശ്രയിച്ചിരിക്കും മർദ്ദം സ്ക്രൂ മുറുക്കുന്നത് അനുസരിച്ച് ക്രമീകരിക്കാൻ സാധിക്കും അതിനാൽ സ്ക്രൂ മുറുക്കിയാൽ സ്പ്രിംഗ് വാൽവിൽ പ്രീലോഡ് ചെയ്യാൻ സാധിക്കും എന്നിട്ട് ക്രമീകരിച്ച് മൂല്യം അഥവാ മർദ്ദം പരിധി താണ്ടി പോവുകയാണെങ്കിൽ ദ്രാവകം ട്രയിൻ ആയി ബന്ധിപ്പിക്കും ഇത് ഈ ചിഹ്നം ഉപയോഗിച്ച് കാണിച്ചിട്ടുണ്ട് ഇതാണ് റിലീഫ് ദിശ ഒപ്പം ഇത് കാണിക്കുന്നത് ക്രമീകരിക്കാവുന്ന സ്പ്രിംഗ് ആണ് അതിനാൽ ഇതാണ് വളരെ ലളിതമായ പ്രഷർ റിലീഫ് വാൽവ് ഇനിയുള്ളത് പൈലറ്റ് പ്രവർത്തനത്തിലുള്ള റിലീഫ് വാൽവ് ആണ് അത് കുറച്ച് സങ്കീർണമാണ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിൻറെ പ്രവർത്തനം രസകരമാണ് പ്രാഥമികമായി എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ സ്പ്രിംഗ് പ്രവർത്തനത്തിലൂടെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു ഓറിഫിസ് ഉണ്ട് അത് ഈ ചിത്രത്തിൽ വരച്ചിട്ടില്ല വരച്ചയാൾ അത് വിട്ടുപോയി അതിനാൽ സാധാരണയായിദ്രാവക മർദ്ദം കാരണം ഇവിടത്തെ സ്ഥിരമായ മർദ്ദം ഒപ്പം ദ്രാവകമർദ്ദം തുല്യമാണ് അതുകൊണ്ട് ഇത് സ്പ്രിംഗ് വച്ച് അമർത്തും ഒപ്പം ഇത് അടഞ്ഞു പോകും ഇത് വന്നു ഇവിടെ ഇരിക്കും അതിനാൽ ദ്രാവകം ഇങ്ങനെയാണ് പോകുന്നത് ഇനി അഥവാ പെട്ടെന്ന് വളരെ പെട്ടെന്ന് മർദ്ദം വന്നാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇത് ചുരുങ്ങിയ ഓറിഫിസ് ആയത് കാരണം ഇവിടത്തെ മർദ്ദവും പിന്നെ ഇവിടത്തെ മർദ്ദവും തുല്യം ആവില്ല അതിനാൽ പെട്ടെന്ന് ഇവിടത്തെ മർദ്ദം കൂടും ഇതിനെ ഫോഴ്സ് കാരണം മുകളിലോട്ട് തള്ളും ഒപ്പം സ്വാഭാവികമായി ഇത് തുറക്കും ഒപ്പം ദ്രാവകം ടാങ്കിൽ എത്തും ഇതാണ് ടാങ്ക് അതിനാൽ പെട്ടെന്ന് മർദ്ദം കൂടുന്നത് നിയന്ത്രിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മർദ്ദം മർദ്ദം വളരെ പതുക്കെ കൂടുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ പ്രതിഭാസം നടക്കില്ല പക്ഷേ ഒരു പ്രത്യേക മൂല്യം ആകുമ്പോൾ ഈ ഫേസ് സീൽ ചെയ്തു എന്ന് കരുതുക ഉദാഹരണത്തിന് ഈ സ്ഥാനത്തിൽ ഇത് ടാങ്ക് ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാനത്തിൽ വാൽവ് ഈ സ്ഥാനത്താണെന്ന് കരുതുക അതിനാൽ ഇത് പമ്പുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇതാണ് പമ്പ് അതിനാൽ ഈ സ്ഥാനത്ത് വരുമ്പോൾ ഇത് ഏതെങ്കിലും മർദ്ദ സ്ഥാനത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഇത് സീൽ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ മർദ്ദം കൂടുമ്പോൾ ഈ മർദ്ദവും കൂടും എന്നിട്ട് രണ്ടും സമതുലിതാവസ്ഥ ആകും ഒരു പ്രത്യേക സമയത്ത് ഇവിടുത്തെ മർദ്ദം വളരെ കൂടുതലായിരിക്കും ഈ നീഡിൽ വാൽവിന് താങ്ങാവുന്നതിനും അപ്പുറം ആയിരിക്കും അതിനാൽ നീഡിൽ വാൽവ് തുറക്കും ഒപ്പം ദ്രാവകം ഇത് പൊള്ളയായ ഭാഗമാണ് ഡോട്ടഡ് ലൈൻ കാണൂ ഇതിൽ കൂടെ പൊള്ളയായ ദ്വാരമുണ്ട് അതിനാൽ ദ്രാവകം ഇതിൽ കൂടെ ഫ്ളോ ചെയ്യും ഇതിലൂടെ എന്നിട്ട് പുറത്ത് ടാങ്കിൽ പോകും അതിനാൽ സ്ഥിരമായ വളരെ കൂടിയ മർദ്ദം പോലും താങ്ങിനിർത്താൻ കഴിയില്ല അവസാനമായി നമ്മൾക്ക് ഫ്ളോ നിയന്ത്രണ വാൽവ് ഉണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഫ്ളോ നിയന്ത്രിക്കണം അതിനാൽ എന്തു ചെയ്യും നമ്മൾക്ക് സമയം ശരിക്കും കഴിയാറായി അതിനാൽ ഫ്ളോ നിയന്ത്രണ വാൽവ് അടുത്ത ലെക്ച്ചറിൽ പരിഗണിക്കാം അതിനാൽ അടുത്ത പാഠഭാഗത്ത് നമ്മൾ ഫ്ളോ നിയന്ത്രണ വാൽവ് ആരംഭിക്കും തൽക്കാലത്തേക്ക് ഞാൻ ഇത് വിടുന്നു ഇതാണ് സിലിണ്ടർ നമ്മൾക്ക് സിലിണ്ടറിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം ഇത് കഴിഞ്ഞ മൂന്നു നാല് സ്ലൈഡിൽ നിന്നാണ് ഇത് നമ്മൾക്ക് അടുത്ത ലെക്ച്ചറിൽ നോക്കാം ഇപ്പോൾ നമ്മൾക്ക് പാഠഭാഗം വിലയിരുത്തണം അതിനാൽ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തത് ഇന്ന് നമ്മൾ കണ്ടത് ഹൈഡ്രോളിക് സിസ്റ്റം തത്വങ്ങളാണ് ദ്രാവകത്തിൽ മർദ്ദം പമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു ഒപ്പം ദ്രാവകം ഫ്ളോ നടക്കുന്നു മർദ്ദം ദ്രാവകത്തിലുടെ അയക്കുന്നു ലൈനിൽ കൂടെ അയക്കുന്നു എന്നിട്ട് ലോഡിൽ കൊടുക്കുന്നു അപ്പോൾ ലോഡിൽ ചലനങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം നമ്മൾ കണ്ടു ഫോഴ്സ് ചില സമയങ്ങളിൽ കൂട്ടാനും ഇതിനു സാധിക്കുന്നു പക്ഷേ അതേസമയം ഊർജ്ജം സംരക്ഷിക്കുന്നു അതിനാൽ നമ്മൾ ഉണ്ടാക്കുന്ന വെലോസിറ്റി പമ്പ് ആ മർദ്ദത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഫ്ളോ നിരക്ക് കാരണം പരിമിതപ്പെടുന്നു നമ്മൾ ഇതും കണ്ടായിരുന്നു ഫലപ്രദമായ സിസ്റ്റം ഉണ്ടാക്കാൻ നമ്മൾക്ക് വിവിധതരം ഭാഗങ്ങൾ വേണം നമ്മൾക്ക് ദ്രാവകം വേണം നമ്മൾക്ക് ലൈൻ വേണം നമ്മൾക്ക് സീലിങ് വേണം തീർച്ചയായും പമ്പ് വേണം ഒപ്പം ആക്ചുവെറ്റർ മോട്ടർ ഫ്ളോ നിയന്ത്രിക്കാൻ കഴിയണം ദ്രാവകത്തിൻറെ ഫ്ളോ നമ്മൾക്ക് നിരവധി തരം വാൽവ് വേണം ഒപ്പം വാൽവിൽ ചില വാൽവിന് ഫ്ളോ ദിശ നിയന്ത്രിക്കാൻ കഴിയും ഒപ്പം ചില വാൽവിന് മർദ്ദം ഒപ്പം ഫ്ളോ നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ നമ്മൾക്ക് ഇത് തുടരാം നമ്മൾ കണ്ടത് പമ്പ് ഒപ്പം മോട്ടർ ഒപ്പം വാൽവ് ഭാഗങ്ങളും കണ്ടു ചില ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട് അവസാനമായി സിലിണ്ടർ അടുത്ത ലെക്ച്ചറിൽ കാണാം അതിനാൽ നിങ്ങൾ ചിന്തിക്കുക ഇലക്ട്രിക് സിസ്റ്റം വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് ഹൈഡ്രോളിക് സിസ്റ്റം ഗുണങ്ങൾ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രോളിക് സിസ്റ്റം പ്രധാനഗുണം അതിന് കൂടുതൽ ഊർജ്ജം കൈകാര്യം ചെയ്യാൻ സാധിക്കും വളരെ ചെറിയ ആകാരത്തിൽ അതുകൊണ്ട് ഇതിന് കൊടുക്കേണ്ട ആദ്യപരിഗണന എയറോസ്പേസ് പ്രവർത്തനങ്ങളിലാണ് ഇത് നമ്മൾ അടുത്ത ലെക്ച്ചറിൽ ചർച്ച ചെയ്യും നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം പ്രധാനഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൂന്ന് തരം പമ്പ് നമ്മൾ ചർച്ച ചെയ്തു ഒപ്പം ഡയറക്ഷണൽ വാൽവ് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത രീതികളും കണ്ടു അതിനാൽ വിവിധതരം ഡയറക്ഷണൽ വാൽവ് ഉണ്ട് വൺവേ ടുവേ ഫോർവേ അപ്പോൾ ഇന്നത്തെ ഭാഗം പൂർണ്ണമാകുന്നു വളരെയധികം നന്ദി നമ്മൾ ഇത് അടുത്ത പാഠഭാഗത്തിൽ തുടരും